ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും പരിചയപ്പെടുത്താം ഏറ്റവും രസകരമായ സംഗതിയല്ലാത്ത പൂജ്യം ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അത് പരിഹരിച്ചു ചിലത് × രസകരമാണ് ഇനിഷ്യൽ സ്റ്റാർട്ട് ഇപ്പോഴും നിലവിലിരിക്കുന്ന ഒരു തരം സീറോ ഇൻപുട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് ഞങ്ങൾ ആരംഭിക്കും പക്ഷേ നിങ്ങൾ സർക്യൂട്ടിലേക്ക് കുറച്ച് ഇൻപുട്ട് ഇടാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇപ്പോൾ Vs എന്നത് സമയത്തിനനുസരിച്ച് ചില കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ പറയും ഇപ്പോൾ നമ്മൾ ഇതിനകം കണ്ടതുപോലെ ഡിഫറൻഷ്യൽ സമവാക്യം ചിലത് × എന്ന് എഴുതാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനമല്ല കാരണം ഞങ്ങൾ വളരെ ലളിതമായ കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ പലപ്പോഴും ഡിഫറൻഷ്യൽ സമവാക്യം ഈ നോർമലൈസ്ഡ് ഫോമിലാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ ഉയർന്ന ഡെറിവേറ്റീവിന്റെ ഗുണകം 1 ആണ് അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ് നിങ്ങൾ ഇത് എങ്ങനെ പരിഹരിക്കും ഇതിന് നിരവധി മാർഗങ്ങളുണ്ട് വാസ്തവത്തിൽ ഇത് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം ആയതിനാൽ നിങ്ങൾക്ക് ഇത് സംയോജിപ്പിക്കാൻ പോലും കഴിയും നിങ്ങൾക്ക് ആ ലോഗരിതം ലഭിക്കുകയും തുടർന്ന് അത് ചെയ്യുക പക്ഷേ ഞാൻ അല്പം വ്യത്യസ്തമായ ഒരു വഴി കാണിക്കും അതായത് ഇത് ചെയ്യാനുള്ള കാരണം കേസ് എങ്ങനെ പരിഹരിക്കാമെന്ന് ഞങ്ങൾക്കറിയാം ഇവിടെ വലതുഭാഗം 0 ആണ് അതിനാൽ എല്ലാം ആ കേസിലേക്കും V കളെ സ്ഥിരാങ്കത്തിലേക്കും ചുരുക്കുന്നു അതിനാൽ ഞാൻ V c 1 നെ V c V s എന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഡെറിവേറ്റീവ് സമാനമാണ് അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം ഇത് ഞങ്ങൾ ഇതിനകം കണ്ടെത്തി എന്താണ് V c 1 ചില സ്ഥിരാങ്കം × എക്സ്പോണൻഷ്യൽ t R c അതിനാൽ ഇത് വലത് വശം 0 ആക്കാനും വീണ്ടും ഒരു ഏകതാനമായ ഡിഫറൻഷ്യൽ ഇക്വാഷൻ നേടാനുമുള്ള വേരിയബിളിന്റെ ഒരു മാറ്റം മാത്രമാണ് ഈ V c 1 ന് ഇതാണ് പരിഹാരമെന്ന് അത് നിങ്ങളോട് പറയുന്നു അപ്പോൾ V c 1 ഉള്ള പരിഹാരം എന്താണ് അതായത് V s ഈ V c 1 0 എക്സ്പോണൻഷ്യൽ t R c തുടർന്ന് പ്രാരംഭ അവസ്ഥകളിൽ നിന്ന് V c 1 0 വീണ്ടും രൂപീകരിക്കേണ്ടതുണ്ട് ഞാൻ ഈ Vcയെ V0 എക്സ്പോണൻഷ്യൽ എന്ന് വിളിക്കും അതായത് Vc10 എക്സ്പോണൻഷ്യൽ t by R c കപ്പാസിറ്ററിലെ ഇനിഷ്യൽ വാല്യൂ Vc 0 ആണെന്നോ അല്ലെങ്കിൽ Vc ആയിരിക്കാമെന്നോ പറയാം അപ്പോൾ Vc10 ന്റെ മൂല്യം എന്താണ് അതിനാൽ Vc ഒരുപക്ഷേ 0 ന് തുല്യമായ t യെ ഞാൻ പകരം വയ്ക്കുകയാണെങ്കിൽ Vc Vs Vc10 ആയിരിക്കണം അതിനാൽ Vc Vc ആണ് ഈ കോൺസ്റ്റന്റ് Vs Vc10 t ൽ 0 ന് തുല്യമാണ് അതിനാൽ വ്യക്തമായും Vc10 എന്നത് Vc Vs ആണ് അതിനാൽ Vc യെ Vs Vc Vs എക്സ്പോണൻഷ്യൽ t by R cഎന്ന് എഴുതാം ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ കാര്യം കപ്പാസിറ്റർ ഒരു ഡിസ്ചാർജ് അവസ്ഥയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ Vc 0 ന് തുല്യമാകുമ്പോൾ അതിനുള്ള പരിഹാരം എന്താണ് അതിനാൽ Vc എന്നത് V s V s എക്സ്പോണൻഷ്യൽ t R c ആയിരിക്കും അതിനാൽ ഇത് നിങ്ങൾ കാണുമെന്ന് ഞാൻ കരുതുന്നു R l അല്ലെങ്കിൽ R c സർക്യൂട്ടുകളിൽ നിങ്ങൾ ഈ പരിഹാരം കാണുമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ പൊതുവേ നിങ്ങൾ മറ്റൊരു പ്രാരംഭ അവസ്ഥയിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മറ്റൊരു പരിഹാരം ലഭിക്കും ഇത് അർത്ഥവത്താണ് കാരണം VcV ആണെങ്കിൽ സർക്യൂട്ടിൽ ചലനം ഉണ്ടാകരുത് അതായത് ഇത് Vs ആകുന്നതിന് തുല്യമാണ് തുടർന്ന് കറന്റ് 0 ആണ് ഒരു മാറ്റവുമില്ല അതാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഈ എക്സ്പോണൻഷ്യൽ പൂർണ്ണമായും ഇല്ലാതാകുകയും VcV എന്നും പറയുന്നു അതിനാൽ ഇവയെല്ലാം നിങ്ങൾ ചെയ്യുന്ന സാനിറ്റി പരിശോധനയാണ് അതിനാൽ പൊതുവേ നിങ്ങൾ സങ്കീർണ്ണമായ എന്തെങ്കിലും പരിഹരിക്കുമ്പോൾ അത് പരിഹരിക്കാനുള്ള വ്യത്യസ്ത വഴികൾ നിങ്ങൾക്കുണ്ടാകണം പരിഹാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചില ലളിതമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന സർക്യൂട്ട് ഞങ്ങൾ നോക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ V c 0 ന് തുല്യമായ V s ആയിരിക്കുകയാണെങ്കിൽ t 0 ന് തുല്യമാണ് കപ്പാസിറ്റർ വോൾട്ടേജിൽ ഒരു മാറ്റവും ഉണ്ടാകരുത് എന്ന് എനിക്കറിയാം ഇപ്പോൾ പരിഹാരത്തിന് അർത്ഥമുണ്ടോ നിങ്ങൾ തുടക്കത്തിൽ ഡിസ്ചാർജ് ചെയ്യുന്ന കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്ററിലൂടെയുള്ള കറന്റ് എന്താണ് കപ്പാസിറ്റർ തുടക്കത്തിൽ 0 ആണെങ്കിൽ കപ്പാസിറ്ററിലൂടെയുള്ള കറന്റ് എന്താണ് V s R കാരണം ഈ വോൾട്ടേജ് V s റെസിസ്റ്ററിനു കുറുകെ ആണ് അതിനാൽ ഈ വൈദ്യുതധാര VsR ന് തുല്യമായിരിക്കണം ആ വൈദ്യുതധാരയാണ് കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നത് അതായത് കപ്പാസിറ്ററിന് ചാർജ് നൽകുന്ന കറന്റ് അതിനാൽ അത് വോൾട്ടേജ് നിർമ്മിക്കുന്നു അപ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജിന്റെ വർദ്ധനവിന്റെ നിരക്ക് എന്താണ് ഇത് കപ്പാസിറ്റർ കൊണ്ട് ഹരിച്ച വൈദ്യുതധാരയാണ് നിങ്ങൾക്ക് ഒരു കപ്പാസിറ്ററിലൂടെ ഒരു നിശ്ചിത കറന്റ് ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ വഴിയുള്ള കറന്റ് വോൾട്ടേജിന്റെ മാറ്റത്തിന്റെ നിരക്കാണ് കറന്റ് എന്നത് ചാർജിന്റെ മാറ്റത്തിന്റെ റേറ്റും കപ്പാസിറ്റൻസ് കൊണ്ടുള്ള ചാർജ് വോൾട്ടേജുമാണ് അതിനാൽ കപ്പാസിറ്റൻസ് വഴിയുള്ള കറന്റ് വോൾട്ടേജിന്റെ മാറ്റത്തിന്റെ റേറ്റ് ആണ് അതിനാൽ തുടക്കത്തിൽ Vsന്റെ സ്ലോപ്പ് Rc കൊണ്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ വേർതിരിച്ചു ഇനിഷ്യൽ ഇന്സ്ടന്റിൽ നിങ്ങൾക്ക് Vs by Rc ലഭിക്കും അങ്ങനെ സാനിറ്റി ടെസ്റ്റുകളും തൃപ്തികരമാകും പക്ഷേ കപ്പാസിറ്റി വോൾട്ടേജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് കറന്റിന് എന്ത് സംഭവിക്കും അത് കുറയുന്നു അതിനാൽ ഈ വോൾട്ടേജ് വർദ്ധിക്കുന്നതിനാൽ കറന്റ് കുറയും അതായത് വോൾട്ടേജിന്റെ വർദ്ധനവിന്റെ റേറ്റ് കുറയുന്നു ഇത് ഇതുപോലെ ചെയ്യുന്നില്ല തുടർച്ചയായി ചെയുന്നത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നു ഫൈനൽ വാല്യൂയിൽ സാവധാനം നീങ്ങാൻ തുടങ്ങുന്നതുവരെ അത് താഴേക്ക് വരുന്നു ഫൈനൽ വാല്യൂ എന്താണ് Vs ഈ ഫൈനൽ വാല്യൂ കപ്പാസിറ്ററിൽ ഉടനീളമുള്ള വോൾട്ടേജ് Vs ആയിരിക്കുമ്പോൾ ഇവിടെ കറന്റ് 0 ആയി മാറുകയും സർക്യൂട്ടിലെ വോൾട്ടേജുകളും കറന്റുകളും മാറുന്നത് നിർത്തുകയും ചെയ്യുന്നു അതിനാൽ ഇത് ഒരു DC ഇൻപുട്ടുള്ള ഈ സർക്യൂട്ടിന്റെ സ്റ്റെഡി സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു സ്റ്റെഡി സ്റ്റേറ്റ്ലുള്ള DC ഇൻപുട്ടുകൾക്ക് കപ്പാസിറ്ററിലൂടെ കറന്റ് ഇല്ല അതിനാൽ ഇത് അസിംപ്റ്റോട്ടിക്കലി Vs ൽ എത്തുന്നു എന്നാൽ ഇ പ്രാരംഭ ചരിവ് എന്താണെന്ന് കണ്ടെത്തുകയാണ് സർക്യൂട്ടിലെ വൈദ്യുതധാരകൾ കണക്കാക്കുന്നതിലൂടെ കപ്പാസിറ്ററിലൂടെ എത്ര കറണ്ട് കടന്നുപോകുന്നു അത് എത്ര വേഗത്തിൽ മാറുന്നുവെന്നും വോൾട്ടേജ് എത്ര വേഗത്തിൽ മാറുന്നുവെന്നും നിങ്ങളോട് പറയാൻ കഴിയും അതിനാൽ ഈ ഫലം എന്താണ് പറയുന്നത് ഈ സർക്യൂട്ടിന് നിങ്ങൾക്ക് V s ഒരു കോൺസ്റ്റന്റ് R C എന്നിവയുണ്ടെങ്കിൽ V c 0 ന്റെ പ്രാരംഭ വോൾട്ടേജിൽ V s V c 0 V s എക്സ്പോണൻഷ്യൽ t R c ആണ് അതിനാൽ നിങ്ങൾ t യുടെ V c പ്ലോട്ട് ചെയ്ത് Vs ഇവിടെ എവിടെയോ ഉണ്ടെന്ന് നമുക്ക് പറയാം ഇതാണ് Vs ന്റെ മൂല്യം നിങ്ങൾ 0 ൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും അതിൽ എത്താത്തത് ചെയ്യും പക്ഷേ അത് അസിംപ്റ്റോട്ടിക്ക് ആയി മാത്രമേ പ്രവർത്തിക്കൂ നിങ്ങൾ കുറച്ച് മധ്യ മൂല്യത്തിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നമ്പറുകൾ നൽകട്ടെ അതിനാൽ ഞാൻ ഇതിനെ 5 വോൾട്ട് എന്ന് വിളിക്കാം അതിനാൽ ഇവിടെ പ്രാരംഭ ചരിവ് R c കൊണ്ട് 5 വോൾട്ട് ആണ് അത് 3 വോൾട്ടിൽ നിന്ന് ആരംഭിക്കുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് ഇപ്പോഴും 5 വോൾട്ടുകളിലേക്ക് പോകും എന്നാൽ പ്രാരംഭ ചരിവ് എന്തായിരിക്കും അത് സമാനമാകുമോ സർക്യൂട്ടിലേക്ക് നോക്കുമ്പോൾ അത് ഏറ്റവും വ്യക്തമാകും കാരണം ഇവിടെ റെസിസ്റ്ററിലുടനീളം 2 വോൾട്ട് അതിനാൽ 2 R എന്നത് കറന്റും 2 R c എന്നത് വോൾട്ടേജിന്റെ മാറ്റത്തിന്റെ നിരക്കുമാണ് അതിനാൽ ഇത് ആരംഭിക്കുന്നത് ചെറിയ ചരിവിലാണ് പക്ഷേ അത് ലക്ഷണരഹിതമായി അതേ മൂല്യത്തിൽ എത്തും നിങ്ങൾക്ക് ഉയർന്ന വോൾട്ടേജിൽ നിന്നും ആരംഭിക്കാം നമുക്ക് 8 വോൾട്ട് എന്തെങ്കിലും പറയാം വീണ്ടും അതേ കാര്യം സംഭവിക്കുന്നു ഇപ്പോൾ കറന്റ് പിന്നോട്ട് ആണെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഒരു കപ്പാസിറ്റർ വോൾട്ടേജ് ഈ വോൾട്ടേജിനേക്കാൾ വലുതാണ് ഒരു കറന്റ് അങ്ങനെ പോകുന്നു കപ്പാസിറ്ററിനെ ഡിസ്ചാർജ് ചെയ്യുകയും അത് അതേ 5 വോൾട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നു ടൈം കോൺസ്റ്റന്റ് എല്ലാ കേസുകളിലും തുല്യമാണ് ഇത് R c ആണ് ഇപ്പോൾ നിങ്ങൾ 0 വോൾട്ടിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കേസ് എടുത്താൽ t R c യിൽ എത്തിയ മൂല്യം എന്താണ് കപ്പാസിറ്റർ വോൾട്ടേജിന്റെ മൂല്യം എന്താണ് അതിനാൽ ഇത് V s × 1 1 ആയിരിക്കും ഇവിടെ ഇത് നാച്ചുറൽ എക്സ്പോണേന്റ് ആണ് ഇത് എത്രയാണ് 636 ആണെന്ന് ഞാൻ കരുതുന്നു അവസാന ദശാംശം ഞാൻ നീക്കം ചെയ്യും അതിനാൽ ഞാൻ ഇവിടെ എത്തും വാസ്തവത്തിൽ മറ്റൊരു കേസിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ ഒരു സമയ കോൺസ്റ്റാന്റിൽ എന്താണ് സംഭവിക്കുന്നത് ഈ മൂല്യം എന്തായിരിക്കും 5 e 5 നാച്ചുറൽ എക്സ്പോണേന്റ് ഇത് ഏകദേശം 37 ശതമാനമാണ് പ്രാരംഭ മൂല്യത്തിന്റെ അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഒരു ടൈം കോൺസ്റ്റന്റ് ൽ ഏകദേശം 63 ശതമാനം മാറുന്നു അത് എവിടെ നിന്ന് ആരംഭിച്ചാലും എവിടെ അവസാനിക്കുന്നു എന്നതിനെ സംബന്ധിച്ചും ഇത് സത്യമാണ് നിങ്ങൾ ഇത് ടൈം കോൺസ്റ്റന്റ് ൽ 100 ശതമാനം എന്ന് നിർവചിച്ചാൽ അതിന്റെ 63 ശതമാനം നിങ്ങൾ ഇല്ലാതാകും അതിനാൽ ഇവയെല്ലാം ഓർത്തിരിക്കേണ്ട ചില ഉപയോഗപ്രദമായ കാര്യങ്ങളാണ് ഞാൻ അർത്ഥമാക്കുന്നത് മനഃപാഠമാക്കണമെന്നില്ല മറിച്ച് മനസ്സിലാക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുക ഈ ഓരോ സാഹചര്യത്തിലും കപ്പാസിറ്ററിലൂടെയുള്ള വൈദ്യുതധാരകൾ എങ്ങനെയായിരിക്കും 0 ൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഇപ്പോൾ ഇനിഷ്യൽ കറന്റ് എന്താണ് R ൽ 5 വോൾട്ട് കറന്റ് 0 ലേക്ക് പോകുന്നു അതുപോലെ 3 വോൾട്ടിൽ നിന്ന് ആരംഭിക്കുമ്പോൾ R ൽ നിന്ന് 2 വോൾട്ട് പ്രാരംഭ കറന്റ് എന്താണ് അതും 0 ലേക്ക് പോകുന്നു എപ്പോൾ ഇത് 8 വോൾട്ടിൽ നിന്ന് ആരംഭിക്കുന്നു അതായത് R ന്റെ 3 വോൾട്ട് അതും 0 ലേക്ക് പോകുന്നു അതേ ടൈം കോൺസ്റ്റന്റ് അതിനാൽ കപ്പാസിറ്ററിലൂടെയുള്ള കറന്റ് ഒടുവിൽ സ്ഥിരമായ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് പൂജ്യമായി മാറുന്നു